ഹലോ സുരക്ഷിത സിസ്റ്റം എഞ്ചിനീയറിംഗിനായുള്ള കോഴ്സിലെ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്വാഗതം മുമ്പത്തെ വീഡിയോകളിലൊന്നിൽ സ്റ്റാക്ക് എക്സിക്യൂട്ടബിൾ അല്ലാത്തതാണെന്ന വസ്തുത മറികടക്കാൻ ആക്രമണകാരികൾ എങ്ങനെയാണ് Return to Libc ആക്രമണം ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കണ്ടു എക്സിക്യൂട്ടബിൾ അല്ലാത്ത ഒരു സ്റ്റാക്ക് നമ്മുടെ പക്കലുണ്ടെങ്കിലും Return to Libc ആക്രമണത്തിൽ ആക്രമണകാരിക്ക് ഒരു ബഫർ overflow ഉണ്ടാക്കാനും ക്ഷുദ്രകരമായ എന്തെങ്കിലും ചെയ്യാനും കഴിയും ഇന്ന് നമ്മൾ കാണിക്കുന്ന ഡെമോൺസ്ട്രേഷനിൽ Return to Libc ആക്രമണം ഉപയോഗിച്ച് നമ്മൾ ഒരു ഷെൽ സൃഷ്ടിക്കും ഈ കോഡുകൾ വിർച്വൽ മെഷീനിൽ ഈ കോഴ്സിനൊപ്പം nptel codesmodule3 എന്ന ഡയറക്ടറിയിൽ ഉണ്ട് vuln എന്ന് വിളിക്കുന്ന C കോഡ് നമുക്ക് നോക്കാം ഇത് വളരെ ലളിതമായ C കോഡാണ് ഇതിന് രണ്ട് ഫംഗ്ഷനുകളുണ്ട് ഒരു main ഫംഗ്ഷനും vuln എന്ന ഫംഗ്ഷനും ഇവിടെ ദുർബലത ഉണ്ടാകുന്നത് strcpy ആണ് ഇത് S ഒരു ബഫറിലേക്ക് പകർത്തുന്നു ഇപ്പോൾ ബഫറിനെ പ്രാദേശികവും വലുപ്പമുള്ള 64 ബൈറ്റുകളുമായാണ് നിർവചിച്ചിരിക്കുന്നത് അതിനാൽ ഈ ബഫറിനെ കവിഞ്ഞൊഴുകുന്നത് S ന് വളരെ എളുപ്പമാണ് കൂടാതെ argv1 ഉപയോഗിച്ച് S ഇൻവോക്ക് ചെയ്യുന്നതിനാൽ ഇത് കമാൻഡ് ലൈനിൽ നിന്നും ചെയ്യാൻ കഴിയും അതിനാൽ ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്ന ഒരു user പെട്ടെന്നുള്ളതും ദൈർഘ്യമേറിയതുമായ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ് നൽകുകയും അതിനാൽ ഈ ബഫറിനെ കവിഞ്ഞൊഴുകുകയും ചെയ്യും ഈ പ്രോഗ്രാം ആദ്യം പ്രവർത്തിക്കുന്നത് കാണുവാൻ നമ്മൾ ഇത് ഒരു ചെറിയ സ്ട്രിംഗ് ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യും ഇത് വിജയകരമായി run ചെയ്യുന്നതായി നമ്മൾ കാണുന്നു ഈ പ്രോഗ്രാമിന് വളരെ വലിയ 64 ബൈറ്റുകളേക്കാൾ വളരെ വലുതായ ഒരു സ്ട്രിംഗ് നൽകിയാൽ strcpy കാരണം പ്രതീക്ഷിച്ച പോലെ ബഫർ overflow ഉണ്ടാകുന്നു ഒപ്പം നമുക്ക് ഒരു സെഗ്മെന്റേഷൻ തകരാറും ലഭിക്കുന്നു മുമ്പത്തെ ഡെമോൺസ്ട്രേഷനിൽ നമ്മൾ കണ്ടതിനോട് വളരെ സാമ്യമുണ്ട് അവിടെ നമ്മൾ സ്റ്റാക്കിൽ ഒരു ബഫർ ഓവർഫ്ലോ കണ്ടു പേലോഡ് സൃഷ്ടിക്കുന്നതിന് മുമ്പത്തെ ഡെമോൺസ്ട്രേഷനിൽ ഉപയോഗിച്ച പൈത്തൺ സ്ക്രിപ്റ്റ് നിങ്ങൾ ഉപയോഗിക്കും ഇത് module2find payload ൽ നിന്ന് ഇവിടേക്ക് പകർത്തുന്നു ഈ പ്രത്യേക സ്ക്രിപ്റ്റിൽ മുമ്പുള്ളതുപോലെ ഏതെങ്കിലും അനിയന്ത്രിതമായ നീളത്തിന്റെ സ്ട്രിംഗുകൾ സൃഷ്ടിക്കും ഉദാഹരണത്തിന് നമ്മൾ 112 സ്പെസിഫൈ ചെയ്താൽ ഇവിടെ ഈ പൈത്തൺ സ്ക്രിപ്റ്റ് 112എ കൾ പ്രിന്റുചെയ്യും അതിനാൽ ഈ 112 വ്യത്യാസപ്പെടുത്തുന്നതിലൂടെ നമുക്ക് സ്ട്രിംഗിനായി വ്യത്യസ്ത ദൈർഘ്യം നേടാനാകും എ 72 ബൈറ്റുകളാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സെഗ്മെന്റേഷൻ പിശക് ഉണ്ടാക്കുന്ന സ്ട്രിംഗിന്റെ ഏറ്റവും ചെറിയ നീളമാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അതിനാൽ find payload എന്നാ കമാൻഡ് നമ്മൾ കണ്ടതുപോലെ നമ്മുടെ പ്രോഗ്രാമിലേക്കുള്ള ഒരു ആർഗ്യുമെന്റായി E1 ഉപയോഗിക്കാനും അത് ഒരു സെഗ്മെന്റേഷൻ തകരാറിന് കാരണമാകുമെന്ന് കാണാനും കഴിയും 72 ൽ താഴെയുള്ള എന്തും ശരിയായി പ്രവർത്തിക്കും ഉദാഹരണത്തിന് ഇതിൽനിന്ന് 4 bytes കുറച്ച് 68 bytes ആക്കുകയും ചെയ്താൽ program ശരിയായി പ്രവർത്തിക്കണം string length 72 byte ആകുമ്പോൾ ബഫർ overflow ഉണ്ടാകുകയും അക്കാരണത്താൽ സ്റ്റാക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫ്രെയിം പോയിന്റർ modify ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഫ്രെയിം പോയിന്റർ modify ചെയ്യുന്ന സ്ട്രിംഗിന്റെ ഏറ്റവും ചെറിയ നീളമാണിത് ഇപ്പോൾ ഈ സ്ട്രിംഗിലേക്ക് നമ്മൾ 4 ബൈറ്റുകൾ കൂടി ചേർത്താൽ അത് ഫ്രെയിം പോയിന്റർ കവിഞ്ഞൊഴുകുക മാത്രമല്ല സ്റ്റാക്കിൽ റിട്ടേൺ അഡ്രസ്സും മോഡിഫൈ ചെയ്യും

അതിനാൽ മുമ്പത്തെ പ്രഭാഷണത്തിൽ കണ്ടതുപോലെ Return to Libc ആക്രമണത്തിനായി ഈ പേലോഡ് സൃഷ്ടിക്കുന്നതിന് നമുക്ക് വേണ്ടത് ബഫർ fill ചെയ്യുക എന്നതാണ് അതിലൂടെ റിട്ടേൺ അഡ്രസ്സ് ഒരു പോയിന്റർ ഉപയോഗിച്ച് modify ചെയ്യാനും കഴിയും system function Libcയിൽ ഉണ്ട് കൂടാതെ ഈ സിസ്റ്റം ഫംഗ്ഷനിലേക്കുള്ള ഒരു സ്ട്രിംഗ് ആർഗ്യുമെൻറ് വേണം അതിനാൽ നമുക്ക് ""binsh"" അല്ലെങ്കിൽ ""binbash"" പോലുള്ള സ്ട്രിംഗ് ആവശ്യമാണ് ഇത് എക്സിക്യൂട്ടബിൾ അടങ്ങുന്ന ഒരു സ്ട്രിംഗ് ആണ് system function എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് മെമ്മറിയിൽ നിന്ന് സ്ട്രിംഗ് തിരഞ്ഞെടുത്ത് അനുബന്ധ എക്സിക്യൂട്ടബിൾ എക്സിക്യൂട്ട് ചെയ്യും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് Return to Libc attack ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളുണ്ട് processൽ സിസ്റ്റം function എവിടെയാണ് റിസൈഡ് ചെയ്യുന്ന locationന്റെ അഡ്രസ്സ് നമുക്ക് ആവശ്യമുണ്ട് കൂടാതെ processൽ "binsh" സ്ട്രിംഗിന്റെ location കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് ഇത് GDB ഡീബഗ്ഗർ ഉപയോഗിച്ച് ഇത് ചെയ്യാം നമ്മൾ പ്രധാനമായും ഒരു ബ്രേക്ക്പോയിൻറ് ഇൻസർട്ട് ചെയ്യുകയും ചില ആർഗ്യുമെൻറ് ഉപയോഗിച്ച് എക്സിക്യൂട്ടബിൾ റൺ ചെയ്യുകയും ചെയ്യുന്നു സിസ്റ്റത്തിനായുള്ള ഈ Libc ഫംഗ്ഷന്റെ വിലാസം നമുക്ക് അ കണ്ടെത്തണം ഇതിനായി gdb p system എന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാം അപ്പോൾ ഈ processൻറെ address 0XX7E42940 ആണ് എന്ന് കാണാം അതിനാൽ ഇതിന്റെ ഒരു പകർപ്പ് നമുക്ക് സൃഷ്ടിക്കാം അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് "binsh" എന്ന സ്ട്രിംഗിന്റെ അഡ്രസ്സ് ആണ് നമുക്ക് "binsh" എന്ന സ്ട്രിംഗും ഉപയോഗിക്കാം അത് ഒരു പോയിന്റാണ് ഇത് ബാഷ് എക്സിക്യൂട്ടബിൾ നിർമ്മിക്കുന്ന ഒരു സ്ട്രിംഗ് ആണ് ഇത് പ്രവർത്തിക്കുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് മറുവശത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു sh ഷെല്ലും സൃഷ്ടിക്കുന്നു അത് "binsh" ആണ് മാത്രമല്ല നമ്മുടെ processൽ "binsh" എവിടെയാണുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഈ പ്രോസസ് മെമ്മറിയുടെ വിവിധ പാതകളിൽ തിരയാൻ നമ്മൾ ശ്രമിക്കുകയാണ് നമുക്ക് ഉറപ്പായും അറിയാവുന്ന ഒരു കാര്യം Libcയിൽ "binsh" ഉണ്ടെന്നതാണ് അതിനാൽ ഈ processന്റെ address spaceൽ Libc ഉള്ള മെമ്മറി ശ്രേണി നിങ്ങൾക്കറിയാമെങ്കിൽ നമുക്ക് ആ മെമ്മറി ഏരിയ തിരയാനും " binsh" ന്റെ വിലാസം തിരിച്ചറിയാനും കഴിയും അതിനാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് Libc എവിടെയാണെന്ന് കണ്ടെത്തുക എന്നതാണ് gdb info proc map എന്ന കമാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത് F7E08000 മുതൽ F7FB5000 വരെയുള്ള സ്ഥലത്ത് Libc നിലവിലുണ്ടെന്നും സമാനമായ രീതിയിൽ മറ്റ് 4 KB പേജുകൾ Libc ഉൾക്കൊള്ളുന്നുണ്ടെന്നും നമുക്ക് കാണാം അതിനാൽ ആവശ്യമായ സ്ട്രിംഗിനായി ഈ മുഴുവൻ മെമ്മറി ശ്രേണിയിലും തിരയാൻ നമ്മൾ ശ്രമിക്കും ഇതിനായി നമുക്ക് GDB കമാൻഡ് ഇങ്ങിനെ ഉപയോഗിക്കാം gdb find 0xF7E08000 0xF7FB9000 "binsh" ഇവിടെ findന് ശേഷം starting address ending address തിരയേണ്ട സ്ട്രിംഗ് എന്നിവ സൂചിപ്പിക്കുന്നു അപ്പോൾ "binsh" F7F6102B എന്ന അഡ്രസ്സിൽ സ്ഥിതി ചെയ്യുന്നതായി കാണാം ഈ address locationൽ നാം കണ്ടെത്തിയ സ്ട്രിംഗ് "binsh" യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം gdb xs 0XF7F6102B എന്ന കമാൻഡ് ഉപയോഗിച്ച് സ്ട്രിംഗ് ആ സ്ഥാനത്ത് Dump ചെയ്യുന്നതിലൂടെ നമുക്ക് അത് ചെയ്യാൻ കഴിയും അതിനാൽ Libc ആക്രമണത്തിലേക്ക് വളരെ അടിസ്ഥാന പരമായ തിരിച്ചു വരവിന് നമുക്ക് വേണ്ടത് ഇതാണ് ഇപ്പോൾ നമ്മൾ GDBയിൽ നിന്ന് exit ചെയ്യും അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഒരു പേലോഡ് സൃഷ്ടിക്കുക എന്നതാണ് അതിനുവേണ്ടി payload generator py എന്നറിയപ്പെടുന്ന ഒരു ചെറിയ python സ്ക്രിപ്റ്റ് എഴുതുന്നു ഇവിടെ നമ്മൾ കാണുന്നത് ഈ പ്രത്യേക പേലോഡ് ജനറേറ്റർ 76 A കൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ട്രിംഗ് Y അച്ചടിക്കുന്നു അത് ബഫറിനെ overflow ചെയ്യുകയും ഫ്രെയിം പോയിന്റർ modify ചെയ്യുകയും ചെയ്യുന്നു അടുത്ത നാല് ബൈറ്റുകൾ റിട്ടേൺ വിലാസത്തെ Override ചെയ്യും little endian ഫോർമാറ്റിൽ സിസ്റ്റം ഫംഗ്ഷന്റെ വിലാസം F7E42940 ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയ സിസ്റ്റം ഫംഗ്ഷന്റെ adressഉം ഇത് തന്നെയാണെന്ന് കാണാം അടുത്തത് ശരിക്കും സ്റ്റാക്കിലെ 4 ബൈറ്റുകളായിരുന്നു അതിനാൽ നമ്മൾ ഇത് ചില ഏകപക്ഷീയമായ മൂല്യങ്ങൾ കൊണ്ട് പൂരിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ A ആണ് ഇടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഏതു വാല്യു വെച്ചെങ്കിലും പൂരിപ്പിക്കാൻ കഴിയും നമ്മൾ "binsh" അഡ്രസ്സ് ഇവിടെ ഇടുന്നു F7F6102B എന്ന വിലാസം നമ്മൾ "binsh" നായി കണ്ടെത്തിയ വിലാസവുമായി പൊരുത്തപ്പെടുന്നു ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്ത സ്റ്റാക്കിലെ റിട്ടേൺ അഡ്രസ് ലൊക്കേഷനിൽ ഉള്ള അഡ്രസ്സിലേക്ക്റിട്ടേൺ ചെയ്യുന്നു ഇത് Libcയിൽ ഉള്ള സിസ്റ്റം ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കും സിസ്റ്റം ഫംഗ്ഷൻ പിന്നീട് സ്റ്റാക്കിൽ നിന്ന് അതിന് ആവശ്യമായ ഒരേയൊരു ആർഗ്യുമെന്റും തിരഞ്ഞെടുക്കും ഈ ആർഗ്യുമെന്റ് ഒരു ക്യാരക്ടർ പോയിന്ററും ആണ് ഇത് എക്സിക്യൂട്ടബിൾ അടങ്ങുന്ന ഒരു സ്ട്രിംഗിലേക്ക് ഒരു പോയിന്റർ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇത് ഈ വിലാസം ആർഗ്യുമെന്റായി ഉപയോഗിക്കുകയും "binsh" എന്ന സ്ട്രിംഗ് തിരഞ്ഞെടുക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പേലോഡ് ജനറേറ്റർ payload generator പ്രവർത്തിപ്പിച്ച് ആവശ്യമായ പേലോഡ് സൃഷ്ടിക്കുക എന്നതാണ് ഇത് നമ്മൾ ഇനിപ്പറയുന്ന രീതിയിൽ ചെയ്യുന്നു നമ്മൾ പൈത്തൺ payload generator py റൺ ചെയ്യുകയും ഫലം e2 എന്ന് വിളിക്കുന്ന ഈ ഫയലിൽ സംഭരിക്കുകയും തുടർന്ന് നമ്മൾ vuln c റൺ ചെയ്യുകയും e2 ൽ നിന്ന് ഇൻപുട്ട് കൈമാറുകയും ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്ഷുദ്രകരമായി രൂപംകൊണ്ട ഈ സ്ട്രിംഗ് മൂലം മുമ്പത്തെപ്പോലെ എക്സിക്യൂട്ട് ചെയ്യാനും ഷെൽ സൃഷ്ടിക്കാനും സിസ്റ്റത്തെ പ്രേരിപ്പിക്കും ഈ ഷെൽ PID 4416 ആണ് കൂടാതെ backgroundൽ മറ്റ് പ്രോസസ്സുകൾ run ചെയ്യുന്നുണ്ട് ആദ്യം ഈ പ്രത്യേക ടെർമിനൽ അടങ്ങുന്ന ഒറിജിനൽ പ്രോസസ് ആണ് ബാഷ് അതിനുശേഷം പ്രോസസ് ID 4415 ഉള്ള vuln എക്സിക്യൂട്ടബിൾ ഉണ്ട് അത് ഇപ്പോഴും backgroundൽ പ്രവർത്തിക്കുന്നു നമുക്ക് sh ഉണ്ട് കൂടാതെ ps എന്ന പ്രോസസ് നമ്മൾ ഉപയോഗിച്ച process ഉം system ഫംഗ്ഷൻ ഒരു ഒരു പ്രോസസ് ഫോർക്ക് ചെയ്യുകയും ആ പ്രത്യേക പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് അതിനാൽ അടിസ്ഥാന പരമായി ഈ പ്രോസസ് "1"ന്റെ ചൈൽഡ് നമ്മൾ ഇപ്പോൾ സൃഷ്ടിച്ച ഷെല്ലാണ് Sh പ്രോസസ്സ് അതിന്റെ എക്സിക്യൂഷൻ പൂർത്തിയാകുന്നതുവരെ പ്രോസസ് "1"നെ ലോക്ക് ചെയ്തിരിക്കുന്നു അതിനാൽ ഈ sh പ്രോസസ്സ് അവസാനിപ്പിക്കുമ്പോൾ പ്രോസസ്സ് "1" തുടർന്നും എക്സിക്യൂട്ട് ചെയ്യും അതിനാൽ നമ്മൾ sh പ്രോസസ്സ് exit ചെയ്യുമ്പോൾ പ്രോസസ്സ് "1" ന് ഒരു സെഗ്മെന്റേഷൻ Error ഉണ്ടാകും എന്നാണ് കാരണം പ്രോസസ് "1" ഈ സ്റ്റാക്കിൽ നിന്ന് ചില garbage values പുറത്തെടുക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് യഥാർത്ഥത്തിൽ പ്രോസസ് crash ആകാൻ ഇടയാക്കുന്നു തിയറി പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടതുപോലെ ആ പ്രത്യേക program സുരക്ഷിതമായി exit ചെയ്യുക എന്നതാണ് ഇതിനുള്ള മികച്ച പരിഹാരം ഒരു അസൈൻമെന്റ് എന്ന നിലയിൽ ഷെല്ലിൽ നിന്ന് സുരക്ഷിതമായി പുറത്തുകടക്കാൻ നമ്മൾ ഉപയോഗിച്ച ഈ ദുർബലത modify ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കാം അതിനാൽ ഇത് ചെയ്യുന്നതിന് നമ്മൾ എക്സിറ്റ് ഉപയോഗിച്ച് ഈ പൈത്തൺ സ്ക്രിപ്റ്റ് payload generator സൃഷ്ടിച്ചു ഇത് നമുക്ക് ഇവിടെയുള്ള system ഫംഗ്ഷനും അതിനോടനുബന്ധിച്ചുള്ള ആർഗ്യുമെന്റും മാത്രമല്ല എക്സിറ്റ് ഫംഗ്ഷനും അടങ്ങുന്ന സ്ട്രിംഗ് സൃഷ്ടിക്കുന്നു അതിനാൽ ഈ വിലാസം എക്സിറ്റ് ഫംഗ്ഷന്റെ വിലാസം fill ചെയ്യേണ്ടതുണ്ട് അത് പ്രോസസിന്റെ Libc മെമ്മറി മേഖലയിലെവിടെയോ ആയിരിക്കും നന്ദി